സോഷ്യൽ മീഡിയ വ്യത്യസ്ത തരങ്ങളിലുണ്ട് അവിടെ വ്യത്യസ്ത തരം വിഷയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഫേസ്ബുക്ക് ട്വിറ്റർ ലിങ്ക്ഡ്ഇൻ തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കുകളാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ജനപ്രിയ തരം സോഷ്യൽ മീഡിയ വിഷയം സൃഷ്ടിക്കപ്പെടുന്ന നിരവധി മാർഗങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രസിദ്ധീകരണം വിക്കിപീഡിയ പോലുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനുള്ള ക്രൌഡ് സോഴ്സ്ഡ് മാർഗ്ഗങ്ങളുള്ള സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ പെടുന്ന പ്രസിദ്ധീകരണം ഇവിടെ സോഷ്യൽ ഗെയിമുകളും വെർച്വൽ ഗെയിമുകളും ഉണ്ട് കൂടാതെ വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ സേവനങ്ങൾ വഴി ലഭ്യമാകുന്ന വ്യത്യസ്ത തരം ഉള്ളടക്കങ്ങൾ ലഭ്യമാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലെ ജനപ്രിയ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ചില ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നെറ്റ്വർക്കുകളിൽ വ്യത്യസ്ത തരം ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഉദാഹരണത്തിന് യൂട്യൂബ് ഏറ്റവും പ്രചാരമുള്ള വീഡിയോ പങ്കിടൽ സേവനങ്ങളിൽ ഒന്നാണ് ചിത്രങ്ങൾക്ക് ഫ്ലിക്കർ ലൊക്കേഷൻ അധിഷ്ഠിത സേവനമായ ഫോർസ്ക്വയർ പ്രൊഫഷണൽ സേവനങ്ങൾക്കുള്ള ലിങ്ക്ഡ്ഇൻ വ്യത്യസ്ത തരം ഉള്ളടക്കങ്ങളുടെ സംയോജനമായ ഫേസ്ബുക്ക് ചിത്രങ്ങൾക്കായുള്ള ഇൻസ്റ്റാഗ്രാം വ്യത്യസ്ത തരം വിഷയങ്ങളുടെ ഹ്രസ്വ ഉള്ളടക്കത്തിന്റെ മൈക്രോ ബ്ലോഗ് ആയ ട്വിറ്റർ നമ്മൾക്ക് ലഭ്യമായ ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ ലഭ്യമായ സോഷ്യൽ മീഡിയ സേവനങ്ങൾ എന്നിവ നോക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ നെറ്റ്വർക്കുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഫോർസ്ക്വയർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ വിവരങ്ങളുടെ ആറ്റോമിക നില ലൊക്കേഷൻ പ്രസ്താവിക്കുക എന്നതാണ് അവരുടെ മുഴുവൻ നെറ്റ്വർക്കും ലൊക്കേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മളുടെ പക്കലുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ കണക്ഷനുകളെ അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കാണ് ലിങ്ക്ഡ്ഇൻ ഇത് ഒരു പരമ്പരാഗത തരം സോഷ്യൽ നെറ്റ്വർക്കാണ്

അതേസമയം മറ്റ് തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ കൂടുതൽ പ്രചാരത്തിലുണ്ട് അവ പിന്ററസ്റ് പോലുള്ള നെറ്റ്വർക്കുകളാണ് ഇത് അതിവേഗം വളരുന്ന ഇമേജ് പങ്കിടൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് വൈൻ ടംബ്ലർ ടിൻഡർ വിസ്പർ സ്നാപ്ചാറ്റ് വെച്ചാറ്റ് മറ്റ് നിരവധി സോഷ്യൽ നെറ്റ്വർക്കുകൾ പ്രചാരത്തിലുണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഈ വിഭാഗത്തെ ക്ഷണികമായ സോഷ്യൽ നെറ്റ്വർക്കുകളായി തരംതിരിക്കാം അവിടെ ഉള്ളടക്കം പോസ്റ്റുചെയ്യുകയും കുറച്ച് സമയത്തിന് ശേഷം അത് സ്വയം നശിപ്പിക്കുകയും ചെയ്യുന്നു വിസ്പർ പോലുള്ള അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്കുകളും ഉണ്ട് അവിടെ നിങ്ങൾ പോസ്റ്റുചെയ്യുന്ന ഉള്ളടക്കം അജ്ഞാതമാണ് കൂടാതെ ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നത് കണ്ടെത്താൻ പ്രയാസമാണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ കൂടുതൽ പ്രചാരം നേടുന്നു ഇത് അവിടെ ലഭ്യമായ സോഷ്യൽ മീഡിയ സേവനങ്ങളുടെ സമഗ്രമായ പട്ടികയല്ല ഇപ്പോൾ 215 220 ജനപ്രിയ സോഷ്യൽ നെറ്റ്വർക്കുകൾ ലഭ്യമാണ് സോഷ്യൽ നെറ്റ്വർക്കുകളിലെ വ്യത്യസ്ത തരം ഉള്ളടക്കങ്ങളും ഓരോ വിഭാഗത്തിലെയും ജനപ്രിയമായവയും കാണിക്കാൻ മാത്രം കൂടുതൽ ജനപ്രിയമായ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ കാണിചിട്ടുള്ളത് ഇന്ന് ഈ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുള്ള 1500 ഓളം ആളുകൾ ഉണ്ട് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും ഓൺലൈൻ സോഷ്യൽ മീഡിയകളുടെയും വ്യാപനമാണ് ഇതിന് പ്രധാന കാരണം നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ 13 പേരിൽ ഒരാൾ അല്ലെങ്കിൽ അതിലും കുറവ് ഒരുപക്ഷേ 10 അല്ലെങ്കിൽ 9 പേരിൽ ഒരാൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ ആക്സസ് ചെയ്യുന്നു നിശ്ചയമായും മൊബൈൽ ഫോണുകളുടെ വ്യാപനമാണ് ഇതിനു കാരണം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഇത്ര വലിയ ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ വ്യാപനം നിങ്ങൾ കാണുന്ന ഈ സ്ലൈഡ് "60 സെക്കൻഡിനുള്ളിൽ ഓൺലൈനിൽ എന്ത് സംഭവിക്കും " വെറും 60 സെക്കൻഡിനുള്ളിൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ വ്യത്യസ്ത നെറ്റ്വർക്കുകളിലേക്ക് തള്ളിവിടുന്നതെന്ന് നിങ്ങളെ കാണിക്കുന്നു 2013ൽ 60 സെക്കൻഡിനുള്ളിൽ ഫേസ്ബുക്കിന് 2 5 ദശലക്ഷം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇന്ന് അവ ഓരോ 60 സെക്കൻഡിലും 3 5 ദശലക്ഷം പോസ്റ്റുകളിലാണ് അത് ഫേസ്ബുക്ക് മാത്രമാണ് നിങ്ങൾ 60 സെക്കൻഡിൽ ട്വിറ്റർ നോക്കിയാൽ 2013 ൽ അവർക്ക് 278000 പോസ്റ്റുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർക്ക് 420000 പോസ്റ്റുകൾ ലഭിക്കുന്നു ഈ വലിയ അളവിലുള്ള ഉള്ളടക്കം ഈ നെറ്റ്വർക്കുകളിൽ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ 2013 ൽ ഓരോ 60 സെക്കൻഡിലും 100 മണിക്കൂർ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു അതേസമയം ഇപ്പോൾ 400 മണിക്കൂർ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു Google തിരയലുകൾ ഇൻസ്റ്റാഗ്രാം ഫോട്ടോഗ്രാഫുകൾ വേർഡ്പ്രസ്സ് പോസ്റ്റുകൾ പങ്കിടുന്ന വാട്ട്സ്ആപ്പ് സന്ദേശങ്ങൾ യൂട്യൂബ് വീഡിയോകൾ അപ്ലോഡുചെയ്യൽ ഇമെയിലുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എത്ര വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുവെന്നും ഏത് തരത്തിലുള്ള വിവരങ്ങളാണെന്നും മനസ്സിലാക്കുന്നതിനാണ് ഇത് സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന വിവരങ്ങളുടെ ആപേക്ഷിക ധാരണ നൽകാനാണ് ഇത് ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ 5 വികളെക്കുറിച്ച് ഈ ചർച്ചയുണ്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ വി കളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വലിയ ഡാറ്റയുടെ വി കളും ഉണ്ട് ലഭ്യമായ വി യുടെ എണ്ണം എന്താണെന്നതിനെക്കുറിച്ച് എപ്പോഴും ഒരു ചർച്ചയുണ്ട് അതിനാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലഭ്യമായ 4 5 വി എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് വെലോസിറ്റി വേഗത ഈ നെറ്റ്വർക്കുകളിൽ ഡാറ്റ യഥാർത്ഥത്തിൽ ജനറേറ്റ് ചെയ്യുന്ന വേഗതയാണ് വെലോസിറ്റി ഓരോ 60 സെക്കൻഡിലും അപ്ഡേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ അളവ് ഞങ്ങൾ കണ്ടു അതിലൂടെ ഈ നെറ്റ്വർക്കുകളിൽ ഡാറ്റ സൃഷ്ടിക്കുന്ന വേഗത നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും രണ്ടാമത്തെ വി വെറൈറ്റി വൈവിധ്യം വ്യത്യസ്ത തരം സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ച് എനിക്ക് ഉണ്ടായിരുന്ന സ്ലൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന വിവിധതരം ഉള്ളടക്കങ്ങളുടെ ഉദാഹരണങ്ങൾ കാണിച്ചുതരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങൾ നിയമാനുസൃതമാണോ എന്ന് കണ്ടെത്തുന്നതിനാണ് വെറസിറ്റി സത്യസന്ധത എന്ന മൂന്നാമത്തെ വി വെറസിറ്റി മൂന്നാമത്തെ വി ആണ് ആദ്യ വി വേഗതയാണ് രണ്ടാമത്തെ വി ആണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ച വൈവിധ്യം മൂന്നാമത്തെ വി സത്യസന്ധതയും നാലാമത്തെ വി വോളിയവുമാണ് വ്യാപ്തം സൃഷ്ടിക്കപ്പെട്ട ഉള്ളടക്കത്തിന്റെ വലുപ്പമാണ് വോളിയം ഇത് വേഗതയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് യൂട്യൂബിൽ ഓരോ 60 സെക്കൻഡിലും 400 മണിക്കൂർ വീഡിയോകൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത് അതിന്റെ ഇടവും അതിലേക്ക് പോകുന്ന സ്ഥലവും ആണ് അധിനിവേശം അതായത് വോളിയം ഈയിടെയായി ആളുകൾ സംസാരിക്കുന്ന അഞ്ചാമത്തേതിനെയാണ് വാല്യൂ മൂല്യം എന്ന് വിളിക്കുന്നത് മൂല്യം എന്നാൽ നമുക്ക് ഈ വി കൾ ഉണ്ടായിരിക്കാം വോളിയം വേഗത വൈവിധ്യം സത്യസന്ധത എന്നാൽ ഈ ഉള്ളടക്കത്തിന് മൂല്യമില്ലെങ്കിൽ അതിന് അർത്ഥമില്ല അതിനാൽ അഞ്ചാമത്തെ വി മൂല്യമാണ് 4 വി വോളിയം വേഗത വൈവിധ്യം കൃത്യത എന്നിവയിൽ ആരംഭിക്കുന്നു അഞ്ചാമത്തെ വി മൂല്യം ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകൾ നോക്കാം ഞങ്ങൾ ജനപ്രിയമായവയിൽ ചിലത് മാത്രമേ നോക്കൂ ഇവയാണ് രസകരമായ സോഷ്യൽ നെറ്റ്വർക്കുകൾ ആദ്യം നമുക്ക് ഫേസ്ബുക്ക് നോക്കാം നിങ്ങളിൽ പലർക്കും ഫേസ്ബുക്കിൽ അക്കൌണ്ട് ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു ഫേസ്ബുക്ക് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇത് എന്റെ അക്കൌണ്ടും ഫെയ്സ്ബുക്കിന്റെ അടിസ്ഥാന നിർമാണ ബ്ലോക്കുകളുമാണ് ആദ്യം എന്റെ ചുമരിൽ എനിക്ക് ലഭിക്കുന്ന ഫീഡ് ഇവരാണ് സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നു അവർ അവിടെ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ എന്റെ അക്കൌണ്ടിലേക്ക് പോകട്ടെ ഇത് എന്റെ അക്കൌണ്ടാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓൺലൈൻ കോഴ്സിനായുള്ള 1500 രജിസ്ട്രേഷനുകളെക്കുറിച്ച് ഞാൻ ഇന്നലെ ചെയ്ത പോസ്റ്റ് ഇതാണ് ഞാൻ പോസ്റ്റ് ചെയ്ത ഈ വാചകം അതിനൊപ്പം ഒരു ചിത്രവും ഉണ്ട് പോസ്റ്റിനുള്ള ലൈക്കുകൾ ഇതാ നിങ്ങൾക്ക് പോസ്റ്റിൽ അഭിപ്രായമിടാനും പങ്കിടാനും കഴിയും ഇവയിൽ ചിലത് വളരെ അടിസ്ഥാനപരമാണെങ്കിലും ഇത് വേഗത്തിൽ പ്രവർത്തിപ്പിക്കുക അതിനാൽ ഞങ്ങൾ കോഴ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇത് വീണ്ടും ഉപയോഗിക്കും അതിനാൽ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കുകൾ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റാണ് നിങ്ങൾക്ക് അപ്ലോഡുചെയ്യാനും ലൈക്കുകൾ അഭിപ്രായങ്ങൾ പങ്കിടാനും കഴിയുന്ന ടെക്സ്റ്റ് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആകാം പോസ്റ്റ് ഫേസ്ബുക്ക് സംഭരിക്കുന്ന ഉള്ളടക്കം ഒരു ഗ്രാഫ് ഫോർമാറ്റിലാണ് അത് ഫേസ്ബുക്കിൽ ഒരു ഗ്രാഫിൽ സംഭരിക്കുന്നു ഒരു ഉപയോക്താവെന്ന നിലയിൽ ഞാൻ ഗ്രാഫിലെ ഒരു നോഡായി ചില ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നു തുടർന്ന് ഞാൻ സൃഷ്ടിക്കുന്ന ഉള്ളടക്കവും ഒരു നോഡാണ് ഈ നോഡുകൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ അരികുകളുണ്ട് ഫേസ്ബുക്കിലെ മറ്റൊരു ഘടകം സുഹൃത്തുക്കളാണ് അതിനാൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ രണ്ട് ഉപയോക്താക്കൾക്കിടയിൽ ഒരു അരികുണ്ട് അത് സൌഹൃദ ബന്ധമാണ് ഫേസ്ബുക്ക് യഥാർത്ഥത്തിൽ ഒരു ദ്വിദിശ നെറ്റ്വർക്കാണ് ദ്വിദിശയുടെ അർത്ഥമെന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ അമിതാഭ് ബച്ചനുമായി ചങ്ങാത്തത്തിലാകണമെങ്കിൽ ഞാൻ ഒരു അഭ്യർത്ഥന അയയ്ക്കണം അദ്ദേഹം അത് അംഗീകരിക്കണം അതായത് രണ്ട് ആളുകൾക്കിടയിൽ ഒരു ബന്ധമുണ്ട് ഇരുവരും സുഹൃത്തുക്കളാകാൻ സമ്മതിക്കണം മറ്റ് നെറ്റ്വർക്കുകളിലെ വ്യത്യാസങ്ങൾ ഞാൻ കാണിച്ചുതരാം അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ അതാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ മറ്റ് നിരവധി സവിശേഷതകൾ ഉണ്ട് അത് ഞാൻ വിശദമായി പറയാൻ പോകുന്നില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ചില അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കുകൾ കാണിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം ഫേസ്ബുക്കിൽ പേജുകളും ഉണ്ട് ഈ കോഴ്സിൽ നമ്മൾ ചില പേജുകൾ പിന്നീട് നോക്കും അവ നിങ്ങൾ ഭാഗമായതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ആയ പേജുകളാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഡൽഹി ഐഐഐടിയിലെ സംരംഭകത്വ സെല്ലായ അന്താര പ്രേരണയുടെ ചില പേജുകളുടെ ഭാഗമാണ് ഞാനും ചില ഗ്രൂപ്പുകളുടെ ഭാഗമാണ് ചില ഗ്രൂപ്പുകൾ പൊതുവായിരിക്കാം ചിലത് സ്വകാര്യമായിരിക്കാം കോഴ്സിൽ നമ്മൾ പിന്നീട് നോക്കുന്ന ലളിതമായ കാര്യങ്ങളാണിവ ഓർമ്മ പുതുക്കാൻ ഫേസ്ബുക്ക് ദ്വിദിശ ഇവിടെ നിർമ്മിക്കുന്ന ഉള്ളടക്കം അപ്ലോഡ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ഇമേജ് വീഡിയോ ലൈക്കുകൾ അഭിപ്രായങ്ങൾ ഷെയറുകൾ പേജുകളും ഗ്രൂപ്പുകളും ഫേസ്ബുക്കിന്റെ അടിസ്ഥാന നിർമാണ ബ്ലോക്കുകളാണ് ഇനി നമുക്ക് ട്വിറ്ററിലേക്ക് പോകാം എന്റെ പ്രഭാഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്വിറ്റർ ഒരു ദിശാസൂചന ശൃംഖലയാണ് അതായത് എനിക്ക് ട്വിറ്ററിൽ ആരെയും പിന്തുടരാനാകും എനിക്ക് അമിതാഭ് ബച്ചനെ പിന്തുടരാം അതിനാൽ അദ്ദേഹം എന്താണ് പോസ്റ്റുചെയ്യുന്നതെന്ന് ഞാൻ കാണുന്നു ട്വിറ്റർ ഒരു മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റാണ് അതിന്റെ അർത്ഥമെന്താണ് അതായത് ട്വിറ്ററിൽ സൃഷ്ടിക്കുന്ന ഉള്ളടക്കം 140 പ്രതീകങ്ങൾ മാത്രമാണ് ഇത് അതിനേക്കാൾ കൂടുതലാകില്ല അതേസമയം ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുപോലെ അതിന് കഴിയും ഫേസ്ബുക്കിൽ നമ്മൾ സുഹൃത്തുക്കളെ കണ്ടു ട്വിറ്ററിൽ അത് പിന്തുടരുന്നവരും പിന്തുടരുന്നതും ആണ് അതിനാൽ ഇത് എന്റെ അക്കൌണ്ടാണ് എനിക്ക് 1156 ഫോളോവേഴ്സ് ഉണ്ട് അത് എന്നെ പിന്തുടരുന്ന ആളുകളാണ് ഞാൻ ഒരു ഉള്ളടക്കം പോസ്റ്റുചെയ്യുമ്പോൾ 1100 ആളുകൾ അത് കണ്ടു 176 ഇനിപ്പറയുന്നവ ഞാനും പിന്തുടരുന്ന ആളുകളാണ് ഈ 176 പേരിൽ ആരെങ്കിലും ഒരു ഉള്ളടക്കം പോസ്റ്റുചെയ്താൽ എനിക്ക് അത് ലഭിക്കാൻ പോകുന്നു അങ്ങനെ ഞാൻ ഇതുവരെ 1470 ട്വീറ്റുകളും 176 ഫോളോയിംഗുകളും 1156 ഫോളോവേഴ്സും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ 176 ആളുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ അടങ്ങുന്ന എന്റെ ടൈം ലൈനാണിത് ട്വിറ്റർ ധാരാളം പ്രമോഷണൽ പോസ്റ്റുകൾ ചെയ്യുന്നു അത് അറിയിപ്പുകളിലും കാണിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും ഉദാഹരണത്തിന് നിങ്ങളുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം അറിയിപ്പിൽ കാണിക്കുന്നു ഇവിടെ ഹാഷ്ടാഗും ഉണ്ട് ഈ ക്ലാസിനായി ഞാൻ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗായ psomonnptel പിസൊമോൻഎൻപിടെൽ എന്ന ഹാഷ്ടാഗ് ഉള്ള ഫേസ്ബുക്കിൽ ഞാൻ ചെയ്ത ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടു ക്ലാസ്സിലെ ആരെങ്കിലും യഥാർത്ഥത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പോസ്റ്റുചെയ്യുന്നുവെങ്കിൽ ദയവായി 'പിസൊമോൻഎൻപിടെൽ' എന്ന ഹാഷ്ടാഗ് ചേർക്കുക ഈ ഡാറ്റ ശേഖരിക്കാനും അത് എങ്ങനെ ഉപയോഗിക്കാനാണ് നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ തുടങ്ങിയവ പരിശോധിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു ട്രെൻഡുകൾ ട്രെൻഡുകൾ ട്വിറ്റർ വളരെ ജനപ്രിയമാക്കിയ ഒന്നാണ് ഇവിടെ നിങ്ങൾ ഡൽഹി ട്രെൻഡുകൾ കാണുകയാണെങ്കിൽ ഞാൻ ഇത് ഡൽഹിക്ക് വേണ്ടി സജ്ജമാക്കി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മറ്റ് സ്ഥലങ്ങൾക്കായി നിങ്ങൾക്ക് ഇത് മാറ്റാനാകും ഈ സാഹചര്യത്തിൽ മിസ്റ്റർ റോബോട്ട് ഓൺഇൻഫിനിറ്റി ഇപ്പോൾ ട്രെൻഡുചെയ്യുന്ന ഒന്ന് മോദിഫോറിൻ അച്ചീവ്മെന്റ് ഇവയെല്ലാം ട്രെൻഡുചെയ്യുന്ന ഹാഷ്ടാഗുകളാണ് ഹാഷ്ടാഗുകളല്ലാത്ത വാക്കുകളും ട്രെൻഡിംഗ് ആയിരിക്കാം ഈ ട്രെൻഡിംഗ് ഡൽഹിയിൽ നിന്നാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഹാഷ്ടാഗുകൾ ഇവയാണ് ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഫേസ്ബുക്കിൽ ഇത് ലൈക്കുകളും അഭിപ്രായങ്ങളും പങ്കിടലുകളും ആണ് ട്വിറ്റർ ലോകത്ത് ഇത് റീട്വീറ്റ് ആണ് അത് ഇവിടെയുണ്ട് മറുപടി ഇവിടെയുണ്ട് ഇത് 'ലൈക്ക്'ഇഷ്ടപ്പെടുക ആണ് മുമ്പ് ട്വിറ്ററിന് പ്രിയപ്പെട്ടത് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ലൈക്കുകൾ ആണ് വീണ്ടും ഞാൻ മറ്റ് ചില അടിസ്ഥാന കാര്യങ്ങളിലൂടെ കടന്നുപോകുന്നു ഡാറ്റ ശേഖരിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കും ട്വിറ്റർ ഒരു ദിശാസൂചന നെറ്റ്വർക്കാണ് ഇത് ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ഉപയോക്താക്കൾക്ക് ഉണ്ടാകാവുന്ന ഇടപെടലുകൾ ഒരു ടെക്സ്റ്റ് ഇമേജ് വീഡിയോ ലിങ്കുകൾ എന്നിവയും അതുപോലുള്ളവയും പോസ്റ്റുചെയ്യുന്നു ഇവിടെ ഇത് മറുപടി റീട്വീറ്റ് ലൈക്ക് എന്നിവയാണ് ഞങ്ങൾ ഹാഷ്ടാഗിനെക്കുറിച്ചും സംസാരിച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ സോഷ്യൽ നെറ്റ്വർക്ക് നോക്കാം ആദ്യം ഞങ്ങൾ ഫേസ്ബുക്ക് ചെയ്തു അത് സുഹൃത്തുക്കളുമായുള്ള കൂടുതൽ ഇടപെടലുകളാണ് ഇത് പല കാര്യങ്ങളുടെയും ഉള്ളടക്ക തരങ്ങളുടെയും സംയോജനമാണ് ട്വിറ്റർ മൈക്രോ ബ്ലോഗിംഗ് ആണ് ഇപ്പോൾ ഞങ്ങൾ ലിങ്ക്ഡ്ഇൻ നോക്കുന്നു ഇത് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് പോലെയാണ് ലിങ്ക്ഡ്ഇൻ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ലിങ്ക്ഡ്ഇൻ അടിസ്ഥാനപരമായി കണക്ഷനുകളിൽ പ്രവർത്തിക്കുന്നു ഫേസ്ബുക്കിലെ പദം സുഹൃത്തുക്കളാണ് ട്വിറ്ററിൽ ഇത് പിന്തുടരുന്നവരും പിന്തുടരുന്നവയും ലിങ്ക്ഡ്ഇനിൽ ഇത് കണക്ഷനുകളാണ് ലിങ്ക്ഡ്ഇനിൽ ഞാൻ കേരളത്തിൽ അവധിയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നവരെ ഇവിടെ അപൂർവ്വമായി കാണാം ആളുകൾ ഇവിടെ ചെയ്യുന്ന പോസ്റ്റ് അങ്ങനെയല്ല ഇവിടെയുള്ള ആളുകൾ കൂടുതൽ ഗൌരവമുള്ളവരാണ് അവർ അവരുടെ തൊഴിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അവർ ജീവനക്കാരെ തിരയുന്നു ഈ ദിവസങ്ങളിൽ ലിങ്ക്ഡ്ഇനിൽ ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നു ഇനി നമുക്ക് ഫോർസ്ക്വയർ എന്നൊരു സോഷ്യൽ നെറ്റ്വർക്ക് നോക്കാം ഫോർസ്ക്വയർ പ്രാഥമികമായി ഒരു ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്ക് ലൊക്കേഷനുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉപയോക്താക്കൾ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് പോയി ചെക്ക് ഇൻ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നു ഫോർസ്ക്വയറിന്റെ അടിസ്ഥാന പ്രവർത്തനമാണ് ചെക്ക് ഇൻ ചെക്ക് ഇൻ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുക എയർപോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യുക നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഫോർസ്ക്വയർ സിസ്റ്റം നിങ്ങൾ ആ സ്ഥലത്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ ഈ സ്ഥലത്താണെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുകയും ചെയ്യും ഇത് ഒന്നിലധികം വഴികളിൽ ഉപയോഗിക്കാം ഉദാഹരണത്തിന് സ്ക്രീനിൽ ഞാൻ ഇപ്പോൾ തിരയുന്നതിനായി ഇത് ന്യൂഡൽഹിയിലെ ഭക്ഷണമാണ് റേറ്റിംഗിനൊപ്പം എനിക്ക് പോകാൻ കഴിയുന്ന ചില റെസ്റ്റോറന്റുകൾ ഇത് കാണിച്ചുതരുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിശോധിക്കാം റെസ്റ്റോറന്റ് ഭക്ഷണം നല്ലതാണോ എന്ന് പറയുന്നത് പോലുള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് നൽകാം അതാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ടിപ്പ് അതാണ് ഫോർസ്ക്വയർ ബിൽഡിംഗ് ബ്ലോക്ക് ലൊക്കേഷൻ അധിഷ്ഠിത നെറ്റ്വർകാണ് അഭിപ്രായമിടുന്നതിനെക്കുറിച്ചും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലെ അഭിപ്രായങ്ങൾ പോലെ ഫോർസ്ക്വയറിലും സംഭാവനയുണ്ട് നിങ്ങൾ നോക്കുന്നത് ഫെയ്സ്ബുക്ക് ട്വിറ്റർ ലിങ്ക്ഡ്ഇൻ ഫോർസ്ക്വയർ തുടങ്ങിയ ജനപ്രിയമായവ മാത്രമാണ് ഇത് ഗൂഗിൾ പ്ലസ് ആണ് ഞാൻ ഫേസ്ബുക്കിൽ കാണിച്ച അതേ പോസ്റ്റ് തന്നെയാണ് ഞാനും ചെയ്തത് ഗൂഗിൾ പ്ലസിൽ രസകരമായി അവർക്ക് സുഹൃത്തുക്കളെ സർക്കിളുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സർക്കിളിലേക്ക് ആളുകളെ ചേർക്കുകയും നിങ്ങൾ അവരുടെ സർക്കിളിലേക്ക് ചേർക്കുകയും ചെയ്യും അതിനാൽ അതാണ് Google പ്ലസ് വീണ്ടും മറ്റ് നെറ്റ്വർക്കുകൾ പോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇമേജുകൾ വീഡിയോയിലേക്ക് ഒരു ലിങ്ക് ചേർക്കാൻ കഴിയും ഇവിടെ ഇതിനെ 1 എന്ന് വിളിക്കുന്നു ഇത് ഫേസ്ബുക്കിലെ ലൈക്കുകൾ പോലെയാണ് ട്വിറ്ററിലെ റീട്വീറ്റ് പോലെ വീണ്ടും ലിങ്ക്ഡ്ഇനിലും ഇത് ഒരു പോസ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇനിലും യഥാർത്ഥത്തിൽ അഭിപ്രായമിടാം അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്ത നെറ്റ്വർക്കുകളെക്കുറിച്ച് സംസാരിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നു ഫേസ്ബുക്കിലെ ഏറ്റവും പ്രശസ്തരായ 10 ആളുകൾ രസകരമെന്നു പറയട്ടെ അവരെല്ലാവരും ഒന്നുകിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകളോ സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളോ ആണ് ഇത് ട്വിറ്ററും പിന്തുടരുന്നവരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനപ്രിയ അക്കൌണ്ടുകളുമാണ് വീണ്ടും ഫേസ്ബുക്കിലെ അതേ പ്രവണത സ്പോർട്സുമായി അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറഞ്ഞതുപോലെ ട്വിറ്റർ ട്വീറ്റ് റീട്വീറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പദങ്ങൾ ലൈക്ക് ഹാഷ്ടാഗ് റിപ്ലൈസ് ഞാൻ മുമ്പ് പറയാത്ത ഒരു കാര്യം മെൻഷൻ' പരാമർശം എന്ന് വിളിക്കുന്നു പരാമർശമെന്നത് നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എന്നെ എന്റെ ട്വിറ്റർ അക്കൌണ്ടിലേക്ക് പോകാൻ അനുവദിക്കുക എനിക്ക് പ്രധാനമന്ത്രിയെ പരാമർശിക്കണമെങ്കിൽ ഇത് ചെയ്യണം എനിക്ക് ശരിക്കും നരേന്ദ്രമോദി എന്ന ഹാഷ്ടാഗ് ചെയ്ത് ഒരു പോസ്റ്റ് ചെയ്യാം അതിനാൽ ഇത് നരേന്ദ്ര മോദി ഹാൻഡിൽ ഒരു അറിയിപ്പ് അയയ്ക്കും അദ്ദേഹത്തിന്റെ ഹാൻഡിൽ ഉപയോഗിച്ച് ചില പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് യൂട്യൂബ് ഒരു ജനപ്രിയ വീഡിയോ പങ്കിടൽ വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഭൂരിഭാഗവും യൂട്യൂബ് ഉപയോഗിക്കുമെന്ന് എനിക്ക് മനസ്സിലായതിനാൽ ഞാൻ യൂട്യൂബ് ന്റെ വിശദമായ അവലോകനം നടത്താൻ പോകുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടാനോ പങ്കിടാനോ കഴിയും നിങ്ങൾക്ക് ഒരു ചാനൽ സൃഷ്ടിക്കാനും ആളുകൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബുചെയ്യാനും ഒരു വീഡിയോ സ്പാം അല്ലെങ്കിൽ ക്ഷുദ്രകരമായ ഉള്ളടക്കമായി റിപ്പോർട്ടുചെയ്യാനും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാനും കഴിയും അതിനാൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലും നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും യൂട്യൂബ് ലും ചെയ്യാനാകും പിന്ററസ്റ് മറ്റൊരു ജനപ്രിയ സോഷ്യൽ നെറ്റ്വർക്കാണ് ഇത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇത് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ഒരു ദശലക്ഷം ഉപയോക്താക്കൾ പെട്ടെന്ന് പിന്ററസ്റ് ൽ എത്തി പിന്ററസ്റ് ന്റെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്ക് ഒരു ചിത്രമാണ് അവിടെ ഞാൻ ഒരു ചിത്രം എടുക്കുന്നു പിന്ററസ്റ് ൽ പോസ്റ്റുചെയ്യുന്നു എന്റെ സുഹൃത്തുക്കൾ ചിത്രങ്ങൾ കാണും അവയെല്ലാം ബോർഡുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു ചിത്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന മാർഗ്ഗമാണ് ബോർഡുകൾ ലിങ്ക്ഡ്ഇൻ ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് പെരിസ്കോപ്പ് എന്നിവയെക്കുറിച്ച് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് പെരിസ്കോപ്പ് മറ്റൊരു രസകരമായ സോഷ്യൽ നെറ്റ്വർക്കാണ് അവിടെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്ക് വീഡിയോകളുടെ തത്സമയ സ്ട്രീമിംഗ് ആണ് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുപോലെയാണ് അത് അവിടെ സംഭരിക്കപ്പെടും ഇവിടെ അത് തത്സമയം അപ്ലോഡ് ചെയ്യുന്ന ഒന്നാണ് അത് തത്സമയമാണ് പെരിസ്കോപ്പിന്റെ ലളിതമായ ഒരു ഉദാഹരണം ഇതാ ഇതാ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങൾ ദ്വീപിലാണ് ഹായ് സുഹൃത്തുക്കളേ അതാണ് പെരിസ്കോപ്പ് ഇപ്പോൾ നമുക്ക് ടിൻഡർ എന്ന മറ്റൊരു ജനപ്രിയ സോഷ്യൽ നെറ്റ്വർക്ക് നോക്കാം മിക്കവാറും ഇടത് സ്വൈപ്പും വലത് സ്വൈപ്പും ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളെ ബന്ധിപ്പിക്കുക എന്നതാണ് ഞാൻ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയാണെന്നും എന്റെ പ്രൊഫൈലുമായി വളരെ സാമ്യമുള്ള ആളുകളെ കണ്ടെത്താനും ചെന്നൈയിൽ കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ ടിൻഡറിൽ നോക്കാൻ തുടങ്ങുന്നു ഞാൻ അവരുമായി ബന്ധിപ്പിക്കുന്നു അതാണ് ടിൻഡറിന്റെ അടിസ്ഥാന ആശയം ഇപ്പോൾ യുവാക്കൾക്കിടയിൽ വളരെ പ്രചാരമുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണിത് കൂടാതെ എന്റെ ആദ്യ രണ്ട് സ്ലൈഡുകളിൽ ഒന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ വ്യത്യസ്ത തരം സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ച് സംസാരിച്ചു പരമ്പരാഗത നെറ്റ്വർക്കുകൾ അവിടെ ഞാൻ ഫേസ്ബുക്ക് ട്വിറ്റർ ലിങ്ക്ഡ്ഇൻ എന്നിവ ഇട്ടു തുടർന്ന് ഞാൻ ക്ഷണികമായ സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ചും അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ചും സംസാരിച്ചു അപ്ലോഡ് ചെയ്യുന്ന ഉള്ളടക്കം അജ്ഞാതമായ അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് വിസ്പർ ആരാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്താൻ പ്രയാസമാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ വിസ്പർ യഥാർത്ഥത്തിൽ ഒത്തുചേരുകയും ഉള്ളടക്കം ഇടുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ് ജനപ്രിയമായ ഏറ്റവും പുതിയ എൽ എൽ കുമ്പസാരം ബന്ധങ്ങൾ ഓഎംജി സൈനിക മറ്റ് വിഷയങ്ങൾ ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുക എന്നതാണ് ആശയം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു അജ്ഞാത പോസ്റ്റാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള യാഥാർത്ഥ്യവും ധാരണകളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുള്ളതിനാൽ എന്താണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ എത്ര ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു വ്യത്യസ്ത ജനപ്രിയ നെറ്റ്വർക്കുകൾ എന്തൊക്കെയാണ് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുന്ന ഉള്ളടക്കം നിങ്ങൾ പൂർണമായും വിശ്വസിക്കരുതെന്ന സന്ദേശം നൽകുന്ന ഈ വീഡിയോ കാണാനുള്ള നല്ല സമയമാണിതെന്ന് ഞാൻ കരുതി അതായത് യാഥാർത്ഥ്യവും നിങ്ങൾ കാണുന്ന പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ധാരണകളും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനാൽ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റുചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നതാണ് ഇവിടെയുള്ള ആശയം ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്ത പോസ്റ്റ് നിങ്ങൾ കണ്ടു അവതരണത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്ത പോസ്റ്റ് മികച്ചതായിരുന്നെന്ന് നിങ്ങൾ കണ്ടു വാസ്തവത്തിൽ ആളുകൾ അദ്ദേഹത്തിന്റെ അവതരണ സമയത്ത് ഉറങ്ങുകയായിരുന്നു അദ്ദേഹം തന്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം ഇവിടെ പോസ്റ്റുചെയ്യുന്നു അതേസമയം അദ്ദേഹം തന്റെ കാറിൽ ചുറ്റിനടക്കുകയായിരുന്നു അതിനാൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസമാണിത്